നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരുന്ന ഈ ഓപ് ആമ്പ് സർക്യൂട്ടുകൾ നോക്കുമ്പോൾ നിങ്ങളിൽ പലരും നിരീക്ഷിച്ചിരിക്കാവുന്ന ഒരു കാര്യം നിങ്ങൾ ഓപ് ആമ്പിനെ മൊത്തത്തിൽ എടുത്താൽ അത് കിർച്ച്ഹോഫ്സ് കറണ്ട് ലോ Kirchhoffs current law അനുസരിക്കുമെന്ന് തോന്നുന്നില്ല എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഞാൻ നമ്മുടെ സാധാരണ ആംപ്ലിഫയർ സർക്യൂട്ട് എടുക്കട്ടെ എനിക്ക് ഒരു ഇൻപുട്ട് വോൾട്ടേജ് Vi ഉണ്ടെങ്കിൽ ഇത് R ഉം R ഉം ആണെങ്കിൽ ഒരു ഉത്തമമായ ഓപ് ആമ്പിന് ഔട്ട്പുട്ട് k×Vi ആയിരിക്കും പരിമിതമായ എന്നാൽ വളരെ വലിയ ഗെയിൻ ഉള്ള ഒരു യഥാർത്ഥ ഓപ് ആമ്പിന് ഇത് ഇതിന് അടുത്തായിരിക്കും ഇപ്പോൾ ഈ റെസിസ്റ്ററു കളിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് ViR ആണ് ഇത് kViഇവയുടെ ആകെത്തുക അതായത് ViR ആണ് മറ്റൊരു തരത്തിൽ Vi ഇവിടെയും ദൃശ്യമാകുന്നു അതിനാൽ ഇതിലൂടെയുള്ള കറണ്ട് ViR ആണ് അതുതന്നെയാണ് ആ റെസിസ്റ്ററിലൂടെയും പ്രവഹിക്കുന്നത് ഇപ്പോൾ വ്യക്തമായും ഈ കറണ്ട് ഓപ് ആമ്പിൽ നിന്ന് പുറത്തുവരുന്നു എന്നാൽ ഓപ് ആമ്പിന്റെ ഇൻവെർട്ടിംഗും നോൺ ഇൻവേർട്ടിംഗും ഇൻപുട്ടുകൾ കറണ്ട് ഒന്നും വലിക്കുന്നില്ല അതായത് ഓപ് ആമ്പ് ഒരു ഇൻപുട്ട് കറണ്ടും വലിക്കുന്നില്ല അതിനാൽ ഓപ് ആമ്പിനെ ഞാൻ മൊത്തത്തിൽ സങ്കൽപ്പിക്കുകയാണെങ്കിൽ ഏതെങ്കിലും അടഞ്ഞ പ്രതലത്തിൽ പ്രവേശിക്കുകയോ പുറത്തേക്ക് പോകുകയോ ചെയ്യുന്ന മൊത്തം കറണ്ട് പൂജ്യം ആയിരിക്കണം എന്ന് നമുക്കറിയാം എന്നാൽ ഇവിടെ അത് പൂജ്യം അല്ല എന്നത് വളരെ വ്യക്തമാണ് ഓപ് ആമ്പിൽ നിന്ന് പുറത്തുവരുന്ന കറണ്ട് ViR ആണ് വാസ്തവത്തിൽ എനിക്ക് ഇതിലേക്ക് ഒരു ലോഡ് ചേർക്കാം അപ്പോൾ kViRL എന്ന കറണ്ട് ആ വഴിക്ക് പ്രവഹിക്കും അതിനാൽ പുറത്തുവരുന്ന മൊത്തം കറണ്ടിൽ kViRL ഉം ഉൾപ്പെടുന്നു അപ്പോൾ അത് ViRk×ViRL ആയിരിക്കും ഇവ പൂജ്യം ആണ് അതിനാൽ നിങ്ങൾ അവിടെ അവിടെ പിന്നെ അവിടെയുള്ള കറണ്ടുകൾ സംഗ്രഹിച്ചാൽ അതായത് നമുക്ക് പറയാം ഈ അടഞ്ഞ പ്രതലത്തിൽ നിന്ന് പുറത്തേക്കുവരുന്ന കറണ്ട് തീർച്ചയായും പൂജ്യം അല്ല അതിനാൽ ഇത് KCL ലംഘിക്കുന്നതായി തോന്നുന്നു എന്നാൽ ഇത് തീർച്ചയായും ലംഘിക്കാൻ കഴിയില്ല പക്ഷേ ഇതിനുള്ള പ്രമേയം വളരെ ലളിതമാണ് മിക്ക ഓപ് ആമ്പ് ചിത്രങ്ങളിലെയും പോലെ ഈ ചിത്രത്തിലും നമ്മൾ വൈദ്യുതി വിതരണ ബന്ധങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു അതിനാൽ നമ്മൾ വൈദ്യുതി വിതരണ ബന്ധങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് ആണ് VDD ഇത് ആണ് VSS ഗ്രൌണ്ടു മായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പോസിറ്റീവ് വൈദ്യുതി വിതരണം VDD യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നെഗറ്റീവ് വൈദ്യുതി വിതരണം VSS യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇവയിലൂടെയുള്ള കറണ്ടുകൾ പൂജ്യം അല്ല എന്നത് വ്യക്തമാണ് അതായത് കറണ്ട് വൈദ്യുതി വിതരണ ടെർമിനലുകളിലൂടെ പ്രവഹിക്കുന്നു അങ്ങനെയാണ് ഈ കറണ്ടുകളുടെ ആകെത്തുക സന്തുലിതമാകുന്നത് അതിനാൽ അടിസ്ഥാനപരമായി ഓപ് ആമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറണ്ട് ഓപ് ആമ്പിന്റെ വൈദ്യുതി വിതരണ ടെർമിനലുകളിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ വൈദ്യുതി വിതരണത്തിലൂടെ എത്ര കറന്റ് പ്രവഹിക്കുന്നു എന്നത് ഓപ് ആമ്പിന്റെ ആന്തരിക വിശദാംശങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഒരു മാതൃകയുണ്ട് അത് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യും എനിക്ക് പോസിറ്റീവ് വൈദ്യുതി വിതരണവും നെഗറ്റീവ് വൈദ്യുതി വിതരണവും ഉണ്ട് കൂടാതെ ഓപ് ആമ്പിന്റെ ഇൻപുട്ട് ടെർമിനലിലേക്കുള്ള കറണ്ടുകൾ പൂജ്യം ആണ് പുറത്തേക്ക് വരുന്ന കറണ്ടിനെ Iout എന്നും പോസിറ്റീവ് വൈദ്യുതി വിതരണ ടെർമിനലിലേക്ക് പോകുന്ന കറണ്ടിനെ I എന്നും നെഗറ്റീവ് വൈദ്യുതി വിതരണ ടെർമിനലിൽ നിന്ന് പുറത്തുവരുന്ന കറണ്ടിനെ ഞാൻ I എന്നും വിളിക്കുന്നു ഇപ്പോൾ ഈ I നും I നും ഉള്ള വളരെ ലളിതമായ ഒരു മാതൃക ഇതാണ് അതായത് IOUT പൂജ്യത്തിനെകാൾ വലുതാണെങ്കിൽ I എന്നത് I0 IOUT എന്ന ഒരു നിശ്ചിത മൂല്യമാണ് പകരം ഞാൻ ആദ്യം ഈ നിബന്ധന പറയട്ടെ IOUT പൂജ്യത്തിനെകാൾ വലുതാണെങ്കിൽ അതായത് ഓപ് ആമ്പിൽ നിന്ന് ഒരു പോസിറ്റീവ് കറണ്ട് ആണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ I എന്നത് I0 IOUT ആണ് I എന്നത് വെറും IOUT ആണ് IOUT പൂജ്യത്തിനേക്കാൾ ചെറുതാണെങ്കിൽ I എന്നത് വെറും IOUT ആകും I എന്നത് I0 IOUT ആയിരിക്കും അതിനാൽ ഇത് ആദ്യം തന്നെ കിർച്ചഹോഫ്സ് കറണ്ട് ലോ യെ തൃപ്തിപ്പെടുത്തുന്നു വാസ്തവത്തിൽ ഇതൊരു ലളിതമായ മാതൃകയാണ് എല്ലാ ഓപ് ആമ്പും ഈ മാതൃക അനുസരിക്കണമെന്നില്ല വൈദ്യുതി വിതരണത്തിലൂടെയുള്ള കറണ്ടുകൾ കൃത്യമായി സ്ഥിരം ആകണമെന്നതും മറ്റും ആയിരിക്കാം കാരണം പക്ഷേ സാധാരണയായി ഒരു സ്ഥിരമായ ഭാഗവും പുറത്തേക്ക് പ്രവഹിക്കുന്ന കറണ്ടിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ഭാഗവുമുണ്ട് വിപണിയിൽ ലഭ്യമായിട്ടുള്ള പൊതു ഉപയോഗത്തിനുള്ള ഈ 741 അല്ലെങ്കിൽ 347 അല്ലെങ്കിൽ ആ ഓപ് ആമ്പുകൾ പോലുള്ളവ ഈ മാതൃക ആണ് പിന്തുടരുന്നുത് വ്യക്തമായും IOUT കൃത്യമായി പൂജ്യത്തിന് തുല്യമാണെങ്കിൽ I ഉം I തുല്യമായിരിക്കും അത് I0 ന് സമം ആയിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ ലളിതമായ മാതൃകയാണിത് ഉദാഹരണത്തിന് നമുക്ക് ഇതിൽ നിന്ന് ഒരു ആംപ്ലിഫയർ നിർമ്മിക്കാം ഞാൻ സൂക്ഷ്മമായ വിശദാംശങ്ങൾ കണ്ടുപിടിക്കുന്നില്ല ഇൻപുട്ട് ഒരു സൈനുസോയിടൽ ആണെന്ന് പറയാം ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജും ഒരു സൈനുസോയിടൽ ആയിരിക്കും അതിനാൽ ഈ ഭാഗങ്ങളിൽ IOUT പോസിറ്റീവ് ആയിരിക്കും ആ ഭാഗങ്ങളിൽ IOUT നെഗറ്റീവ് ആയിരിക്കും അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ സംഭവിക്കുന്നത് എന്തെന്നാൽ Vout പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവും എന്ന് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ IOUT ഒരു സൈനുസോയിടൽ കറണ്ടിനെ പിന്തുടരും കാരണം വോൾട്ടേജ് സൈനുസോയിടൽ ആയതിനാൽ കറണ്ടും സൈനുസോയിടൽ ആണ് I ഈ കറണ്ടിനെ പിന്തുടരും ഔട്ട്പുട്ട് കറണ്ട് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ അത് സ്ഥിര മൂല്യം ആയ I0 മാത്രമായിരിക്കും തുടർന്ന് ഇത് ഇതിനെ പിന്തുടരും I ൻറെയും I ൻറെയും ദിശ ശ്രദ്ധിക്കുക I ടെർമിനലിലേക്ക് ഒഴുകുന്നതായും I ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതായും ആണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് ഞാൻ സാധാരണയായി ഉപയോഗിക്കുന്ന രീതിയല്ല പക്ഷേ ഈ മൂല്യങ്ങൾ പോസിറ്റീവ് ആണ് അതുകൊണ്ടാണ് ഞാൻ അവ ഇതുപോലെ ഉപയോഗിക്കുന്നത് I വിപരീതമായി പ്രവർത്തിക്കും ഔട്ട്പുട്ട് വോൾട്ടേജും അതിനാൽ ഔട്ട്പുട്ട് കറണ്ടും നെഗറ്റീവ് ആകുമ്പോൾ ഇത് സ്ഥിരമായിരിക്കും അല്ലാത്തപക്ഷം അത് സിഗ്നലിനെ പിന്തുടരും അതിനാൽ ഒന്നാമതായി KCL ലംഘിക്കാൻ കഴിയില്ല ഓപ് ആമ്പിന്റെ കാര്യത്തിൽ അത് ലംഘിക്കപ്പെടുന്നുമില്ല ഓപ് ആമ്പിന്റെ ഔട്ട്പുട്ട് കറണ്ട് വൈദ്യുതി വിതരണ ടെർമിനലുകളിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഓപ് ആമ്പ് സർക്യൂട്ട് നൽകിയാൽ സർക്യൂട്ട് വിശകലനം ഉപയോഗിച്ച് ഓപ് ആമ്പിൽ നിന്ന് എത്ര കറണ്ട് പ്രവഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വൈദ്യുതി വിതരണത്തിൽ നിന്ന് എത്ര കറണ്ട് ഒഴുകുന്നു എന്ന് നിർണയിക്കണം എങ്കിൽ ഈ മാതൃക ഉപയോഗിക്കാം I0 ന്റെ മൂല്യം നിങ്ങൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ വിതരണ ടെർമിനലുകളിലെ കറണ്ടുകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ അത് പൂജ്യം ആണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം